ഇവിടെ ഞാൻ 5 6 യൂണിറ്റുകളുടെ അസൈൻമെന്റുകൾ ചർച്ച ചെയ്യും ആദ്യത്തെ ചോദ്യത്തിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് കറണ്ട് സ്രോതസ്സു നൽകുന്ന പവർ കണ്ടുപിടിക്കുവാനാണ് ഇവിടെ ഒരു കറണ്ട് സ്രോതസ്സ് ഉള്ളു പ്രധാനമായി ഇതിനു കുറുകെ ഉള്ള വോൾടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ പുറത്തേക്ക് കൊടുക്കുന്ന പവർ കണ്ടുപിടിക്കുവാനാകും പൊതുവായിട്ട് നിങ്ങൾക്ക് ഒരു കറണ്ട് സ്രോതസ്സ് സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് സ്രോതസ്സ് പവർ വലിച്ചെടുക്കുകയും അല്ലെങ്കിൽ പവർ പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ ആക്കാം പക്ഷെ കറണ്ട് സ്രോതസ്സ് മാത്രമാണ് സർക്യൂട്ടിൽ ഉള്ള ഒരേയൊരു ഊർജ്ജസ്രോതസ്സു എങ്കിൽ അത് പവർ പുറത്തേക്ക് കൊടുക്കും അപ്പോൾ ഈ കേസിൽ ബാക്കി എല്ലാ ഘടകങ്ങളും റെസിസ്റ്ററുകൾ ആണ് ഇവയ്ക്ക് പവർ പുറത്തേക്ക് കളയുവാൻ മാത്രമേ കഴിയുകയുള്ളൂ അതിനാൽ കറണ്ട് സ്രോതസ്സിന് പവർ പുറത്തേക്ക് കളയേണ്ടി വരുന്നു പുറത്തേക്കു കളയുന്നതു പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത് അതിനാൽ ഇപ്പോൾ നമുക്ക് ഒരു കിലോ ഓം മൂന്നു കിലോ ഓം എന്നിവ സീരീസിൽ ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നാല് കിലോ ഓം കിട്ടും ഇനി എനിക്ക് നാല് കിലോ ഓം ഒരു കിലോ ഓം എന്നിവ പാരലൽ ആയിട്ട് ഉണ്ട് അത് 0 8 കിലോ ഓം തരും അപ്പോൾ നമുക്ക് 5 മില്ലി ആമ്പ് 0 8 കിലോ ഓമിലൂടെ ഒഴുക്കുന്നതായിട്ട് ഉണ്ട് അതിനാൽ ഈ പൊളാരിറ്റിയിൽ ഉള്ള വോൾട്ടേജ് 4 വോൾട്ട് ആണ് ഇനി നിങ്ങൾ ഈ പൊളാരിറ്റി നാലു വോൾട്ട് എടുത്താൽ കൂടാതെ കറണ്ട് കൺവെൻഷൻ വഴി മാറ്റമില്ലാത്തതും ആണെങ്കിൽ ഈ കറണ്ട് 5 മില്ലി ആമ്പിയർ ആകും അതിനാൽ കറണ്ട് സ്രോതസ്സ്ലേക്ക് കൊടുക്കുന്ന പവർ അല്ലെങ്കിൽ കറണ്ട് സ്രോതസ്സ് വലിച്ചെടുക്കുന്ന പവർ മൈനസ് 20 മില്ലി വാട്ട്സിനു തുല്യം ആയിരിക്കും അതായത് മൈനസ് അഞ്ച് മില്ലി ആമ്പിയർ തവണ 4 വോൾട്ട് തീർച്ചയായും നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് കറണ്ട് സ്രോതസ്സ് പുറത്തേക്ക് കൊടുക്കുന്ന പവർ ആണ് അതായത് കറണ്ട് സ്രോതസ്സ് വലിച്ചെടുക്കുന്ന എന്താണോ അതിന്റെ നെഗറ്റീവ് ആണ് അപ്പോൾ പുറത്തേക്ക് കൊടുക്കുന്ന നിങ്ങൾ കണ്ടുപിടിച്ച പവർ പ്ലസ് 20 വാട്സ് ആയിരിക്കും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ സർക്യൂട്ടിൽ ഒരു ഊർജ്ജസ്രോതസ്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ അത് പോസിറ്റീവ് പവർ കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് പവർ വലിച്ചെടുക്കുന്നത് ആയിരിക്കും അപ്പോൾ ഉത്തരം 20 വീണ്ടും ഈ നിർദ്ദേശങ്ങൾ വായിക്കുക നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് മില്ലി വാട്ട്സിൽ ഉള്ള പവർ ആണ് രണ്ടാമത്തെ ചോദ്യം വീണ്ടും ഊർജ്ജത്തിനോട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചില നെറ്റ്വർക്ക് ഉണ്ട് ചില സർക്യൂട്ട് ഉണ്ട് അത് 5 വോൾട്ട് സ്രോതസ്സ് വെച്ചാണ് ചലിപ്പിക്കുന്നത് അത് 1 2 ജൂൾസ് ഊർജ്ജം ഒരു മിനുറ്റിൽ പുറത്തേക്ക് വിടും കൂടാതെ ഇവിടെ തന്നിട്ടുണ്ട് സർക്യൂട്ടിൽ റെസിസ്റ്ററുകൾ മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കുറച്ചു റെസിസ്റ്ററുകൾ 5 വോൾട്ട് സ്രോതസ്സിന് കുറുകെ ഘടിപ്പിച്ചിട്ടുള്ളതിന് തുല്യമാണ് ഇത് എന്ന് അപ്പോൾ എനിക്ക് 5 വോൾട്ട് ഉണ്ട് കൂടാതെ ഇതിനു രണ്ടിനുമിടയിൽ കുറച്ച് R ഉണ്ട് ഇത് A യും B യും ആണ് A യുടെയും B യുടെയും ഇടയിൽ കുറച്ച് തുല്യതാ റസിസ്റ്റൻസ്സും ഉണ്ട് 60 സെക്കന്റിനുള്ളിൽ 1 2 ജൂൾസ് ഊർജ്ജം വലിച്ചെടുക്കുന്നു അപ്പോൾ 60 സെക്കന്റിനുള്ളിൽ 1200 മില്ലി ജൂൾസ് ഇത് അടിസ്ഥാനപരമായി 20 മില്ലി വാട്ട്സ് ഉണ്ട് ഇത് 5 വോൾട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ R നു തുല്യം അപ്പോൾ R 25 വോൾട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 20 ആയിരിക്കും എനിക്ക് ഈ മില്ലി ഉണ്ട് അപ്പോൾ ഇത് കിലോ ഓംസിൽ ആയിരിക്കും അപ്പോൾ 1 25 കിലോ ഓം അപ്പോൾ രണ്ടാമത്തെ സർക്യൂട്ടിൽ എനിക്ക് 1 25 കിലോ ഓമിനു കുറുകെ 12 5 വോൾട്ട് ഉണ്ട് അപ്പോൾ ഇത് ഒരു 10 മില്ലി അമ്പ് കറണ്ട് ആ ദിശയിൽ ഒഴുകുവാൻ കാരണം ആകുന്നു അപ്പോൾ I1 ഈ ദിശയ്ക്കു വിപരീതം ആണ് അതിനാൽ I1 മൈനസ് 10 മില്ലി ആമ്പ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അറിവ് പവറിനെകുറിച്ചും ഊർജത്തെകുറിച്ചും ഇവിടെ തന്നിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് റസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും രണ്ടാമത്തെ ഭാഗം നേർവഴിക്കുള്ളതാണ് ആ റെസിസ്റ്ററിൽ നിന്നും വോൾട്ടേജിൽ നിന്നും നിങ്ങൾക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും മൂന്നാമത്തെ ചോദ്യത്തിൽ ഒരു കറണ്ട് സ്രോതസ്സ് കപ്പാസിറ്ററിലേക്ക് കറണ്ട് കൊടുക്കുന്നു തുടക്കത്തിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആണ് ഇനി നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം ആണ് കുറച്ചു സമയം കഴിഞ്ഞാൽ കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം കപ്പാസിറ്ററിലുള്ള വോൾട്ടാജിന്റെ സ്ക്വയറിന്റെ C തവണയുടെ പകുതി ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് t 4 മില്ലി സെക്കൻഡ് ആകുമ്പോൾ കപ്പാസിറ്ററിനു കുറുകെയുള്ള വോൾട്ടേജ് ആണ് അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ മുന്നേ പലതവണ പരിഹരിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം കപ്പാസിറ്റർ വോൾട്ടേജ് ഒരു സമയപരിധിയിൽ ഇന്റെഗ്രേറ്റ് ചെയ്യണം അതായത് 0 മുതൽ 4 മില്ലി സെക്കൻഡ് വരെയുള്ള കറണ്ട് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റന്സ് പ്ലസ് തുടക്കത്തിലുള്ള വോൾട്ടേജ് അത് തന്നിരിക്കുന്നത് 0 എന്നാണ് ഈ മേഖലയിൽ ഉള്ള ഇന്റഗ്രൽ അതായത് മൂന്ന് മില്ലി സെക്കൻഡ് തവണ ഒരു മില്ലിആമ്പ് ഇത് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് അതായത് ഒരു മൈക്രോ ഫാരഡ് ഇത് നൽകുന്നത് മൂന്ന് വോൾട്ട് ആണ് കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം C V സ്ക്വയറിന്റെ പകുതിയാണ് അതായത് ഒരു മൈക്രോ ഫാരഡ് തവണ മൂന്ന് വോൾട്ട് സ്ക്വയറിന്റെ പകുതി 5 മൈക്രോ ജൂൾസ് തരും നിങ്ങളോടു ചോദിച്ചിരിക്കുന്നത് മൈക്രോ ജൂൾസ്സിലെ ഉത്തരം ആണ് അതിനാൽ ഉത്തരം 4 അടുത്ത ചോദ്യത്തിൽ നമുക്ക് ഒരു ഇൻഡക്ടർ ഉണ്ട് t 0 ആണ് കറണ്ട് പൂജ്യം ആണ് നിങ്ങൾക്ക് ഒരു വോൾട്ടേജ് സ്രോതസ്സ് ഇണ്ടക്ടറിന് കുറുകെ ഉണ്ട് ഒരു കറണ്ട് സ്രോതസ്സും ഉണ്ട് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഡക്ടറിനു കുറുകെ രണ്ട് വോൾട്ട് ഉള്ള വോൾട്ടേജ് സ്രോതസ്സ് ഉള്ളതുകാരണം നമുക്ക് ലളിതമായി ഇവിടെ രണ്ട് വോൾട്ട് ഉണ്ട് കൂടാതെ ഇൻഡക്ടറിൽ ഉള്ള കറണ്ട് ലീനിയർ ആയിട്ട് കൂടുന്നു ഇതിന്റെ കാരണം ഇൻഡക്ടറിനു കുറുകെ ഉള്ള കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ് ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് വോൾട്ടേജ് സ്രോതസ്സ് t പൂജ്യത്തിൽ നിന്ന് 3 മൈക്രോ സെക്കൻഡ് ആകുമ്പോൾ പുറത്തേക്കു കൊടുക്കുന്ന ഊർജ്ജം കണ്ടുപിടിക്കുവാൻ ആണ് അപ്പോൾ വോൾട്ടേജ് സ്രോതസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ട് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു കറണ്ട് i തന്നിട്ടുണ്ട് ആദ്യം നിങ്ങൾ ഇൻഡക്ടറിൽ ഉള്ള കറണ്ട് കണ്ടുപിടിക്കണം അതിനെ ഞാൻ iL എന്ന് വിളിക്കുന്നു വോൾട്ടേജ് സ്രോതസ്സിൽ നിന്ന് വരുന്ന കറണ്ട് iL മൈനസ് i ആണ് അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇൻഡക്ടറിനു തുടക്കത്തിൽ പൂജ്യം എന്ന കറണ്ട് ആണ് ഉള്ളത് അതിനാൽ ഇൻഡക്ടറിൽ ഉള്ള കറണ്ട് 1 ഓവർ L 1 ഓവർ 1 മൈക്രോ ഹെൻറി ആണ് സമയത്തിനു അനുസൃതമായി 2 വോൾട്ടിന്റെ ഇന്റഗ്രൽ അപ്പോൾ നിങ്ങൾക് കിട്ടുന്നത് 2 x 106t ആംപിയർ അപ്പോൾ ഇണ്ടക്ടർ കറണ്ട് നിങ്ങൾ വരയ്ക്കുക ആണെങ്കിൽ അത് 2 x 106 ആംപിയർ ഓരോ സെക്കന്റിലും ഉയരും അല്ലെങ്കിൽ 2 ആംപിയർ ഓരോ സെക്കന്റിലും ഇനി ഞാൻ ഇത് അതെ ഗ്രാഫിൽ തന്നെ വരയ്ക്കാം x ആക്സിസ് മൈക്രോ സെക്കന്റ് ആണ് കൂടാതെ നമുക്ക് 1 2 3 മൈക്രോ സെക്കന്റ് ഉണ്ട് ഈ സഖ്യ ഇവിടെ ഇണ്ടക്ടർ കറണ്ടിന്റെ പദാവലി ഇതിന്റെ അർത്ഥം t 1 മൈക്രോ സെക്കന്റിനു തുല്യം ആണ് എനിക്ക് 2 ആംപിയർ ഉണ്ട് t 2 മൈക്രോ സെക്കന്റിനു തുല്യം ആണ് എനിക്ക് 4 ആംപിയർ ഉണ്ട് അപ്പോൾ ഇണ്ടക്ടർ കറണ്ട് തന്നെ അത് ചെയ്യും അതിന്റെ സ്ലോപ്പ് 2 ആംപിയർ ഓരോ മൈക്രോ സെക്കൻഡിൽ വോൾടേജ് സ്രോതസ്സ് പുറത്തേക്ക് കൊടുക്കുന്ന കറണ്ട് ഇണ്ടക്ടർ കറണ്ട് മൈനസ് ഈ i ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെചാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇണ്ടക്ടർ കറണ്ട് ശെരിയായിട്ട് കണ്ടുപിടിക്കുവാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്താനാണ് കൂടാതെ നിങ്ങൾക് ലളിതമായ കിർച്ചോഫ് കറണ്ട് ലോ കണക്കുകൂട്ടലുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുവാൻ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ചുവപ്പു കർവ് പച്ച കർവിൽ നിന്ന് കുറയ്ക്കുക അപ്പോൾ എനിക്ക് എന്ത് കിട്ടും ഒരു മൈക്രോ സെക്കൻഡ് ആകുന്നതുവരെ കറണ്ട് പൂജ്യം ആയിരിക്കും അത് കഴിഞ്ഞ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു നേർരേഖ ആണ് അപ്പോൾ അത് അങ്ങനെ പോകും അപ്പോൾ അതാണ് വോൾട്ടേജ് സ്രോതസ്സിൽ നിന്നുള്ള കറണ്ട് iV അപ്പോൾ ഞാൻ ഈ കറണ്ടിനെ രണ്ട് വോൾട്ട് വെച്ച് ഗുണിക്കണം എന്നിട്ട് ഇതിൻറെ താഴെയുള്ള മേഖല ഇന്റഗ്രേറ്റ് ചെയ്യണം അപ്പോൾ ഒരു കോൺസ്റ്റൻസ് വെച്ച് ഗുണിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ ഈ മേഖല ആദ്യം തന്നെ എടുത്തിട്ട് ഇത് ഒരു കോൺസ്റ്റൻസ് വോൾട്ടേജ് വെച്ച് ഗുണിക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ മേഖല ഒരു ത്രികോണം ആണ് അപ്പോൾ ഇത് ഹാഫ് ബേസ് അതായത് രണ്ട് മൈക്രോ സെക്കൻഡ് ബേസ് ഉയരം 4 ആമ്പിയർ അപ്പോൾ ഇത് 4 ആമ്പിയർ തവണ മൈക്രോ സെക്കന്റ് അതായത് 4 മൈക്രോ കൂലോംബ് കൂടാതെ വോൾട്ടേജ് സ്രോതസ്സ് പുറത്തേക്ക് കൊടുക്കുന്ന ഊർജ്ജം രണ്ട് വോൾട്ട് തവണ 4 മൈക്രോ കൂലോംബ് അതായത് എട്ട് മൈക്രോ ജൂൾസ് നിങ്ങളോട് ഊർജ്ജം ചോദിച്ചിരിക്കുന്നത് മൈക്രോ ജൂസിൽ ആണ് അപ്പോൾ ഉത്തരം 8 അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻഡക്ടറിനു കുറുകെ രണ്ട് വോൾട്ട് ഉണ്ടെന്നാണ് അപ്പോൾ കറണ്ട് ലീനിയർ ആയിട്ട് കൂടുകയാണ് എന്നിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് വോൾട്ടേജ് സ്രോതസ്സ് പുറത്തേക്ക് കൊടുക്കുന്ന ഊർജ്ജം എത്ര ആണെന്നാണ് അപ്പോൾ നിങ്ങൾ നോക്കണം എത്ര കറണ്ട് ആണ് വോൾട്ടേജ് സ്രോതസ്സിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതെന്ന് അതായത് അത് ഇൻഡക്ടറിൽ ഉള്ള കറണ്ടിന്റെയും കറണ്ട് സ്രോതസ്സിൽ ഉള്ള കറണ്ടിന്റെയും കൂട്ടുകെട്ട് ആണ് ഈ കറണ്ട് നിങ്ങൾ കണ്ടുപിടിക്കുക അത് ഇന്റഗ്രേറ്റ് ചെയ്യുക അത് വോൾടേജ് ആയിട്ട് ഗുണിക്കുക ഊർജ്ജം കിട്ടുവാനായി ഇത് വോൾട്ടേജ് സ്രോതസ്സും കറണ്ട് സ്രോതസ്സും ഉള്ള ഒരു നെറ്റ്വർക്ക് ആണ് ഇതാണ് തന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലോയും കിർച്ചോഫ് കറണ്ട് ലോയും ശരിയായി പ്രയോഗിക്കുവാൻ സാധിക്കും കൂടാതെ ശ്രദ്ധിക്കുക ചില സ്വതന്ത്ര സ്രോതസ്സുകൾ പവർ പാഴാക്കി കളയാം വേറെ ചിലത് പവർ പുറത്തേക്കും വിടാം നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്നു വെച്ചാൽ പുറത്തേക്ക് കളയുന്ന പവർ ആണ് അപ്പോൾ പതിവുപോലെ നിങ്ങൾക്ക് 2 ടെർമിനൽ ഉള്ള ഘടകം ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സിവ് കൺവെൻഷൻ വഴി വോൾട്ടേജും കറണ്ടും എടുക്കുക വലിച്ചെടുക്കുന്ന പവർ V തവണ i അതായത് ഈ ഘടകം വലിച്ചെടുക്കുന്ന പവർ പുറത്തേക്ക് കളയുന്ന പവർ ഇതിൻറെ അതേ നെഗറ്റീവ് മൂല്യം ആയിരിക്കും അപ്പോൾ ഇത് ഒരിക്കലും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ആദ്യം തന്നെ നമുക്ക് അഞ്ച് ആമ്പിയർ ഇവിടെ ഉണ്ട് ഈ വലതുവശത്തുള്ള കറണ്ട് സ്രോതസ്സ് കാരണം അതിൽ ഒരു ആമ്പിയർ ആ വഴിക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് 4 ആമ്പിയർ ഉണ്ട് അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് എല്ലാം അറിയാം ഇത് ഒരു ആമ്പിയർ ഇത് 4 ആമ്പിയർ കൂടാതെ വീണ്ടും നമുക്ക് 4 ആമ്പിയർ ആ വഴിക്ക് ഉണ്ട് കൂടാതെ അഞ്ച് ആമ്പിയർ ആ വഴിക്ക് അല്ലെങ്കിൽ അഞ്ച് ആമ്പിയർ മുകളിലോട്ട് പോകുന്നു അതിനാൽ ഇതിലെ കറണ്ട് ആ ദിശയിൽ ഒരു ആമ്പിയർ ആയിരിക്കും ഇപ്പോൾ ഞാൻ എന്തു ചെയ്യും എന്ന് വെച്ചാൽ എല്ലാ ഘടകങ്ങളും വലിച്ചെടുക്കുന്ന പവർ ഞാൻ കണക്കു കൂട്ടും ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കറണ്ടും വോൾട്ടേജും പാസ്സിവും കൺവെൻഷനും വഴി സൂചിപ്പിക്കണം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ ആദ്യം തന്നെ എന്തെങ്കിലും വോൾട്ടേജ് തിരഞ്ഞെടുക്കണം പക്ഷേ അടുത്തത് എന്താണെന്നുവെച്ചാൽ കറണ്ട് പാസ്സിവിനും കൺവെൻഷനിനും ചേർച്ചയുള്ളതായായിരിക്കണം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഞാനത് 5 വോൾട്ട് സ്രോതസ്സിനു വേണ്ടി എടുക്കുന്നു ഞാൻ വോൾട്ടേജ് ഈ വഴിയിൽ എടുക്കുന്നു അത് വോൾട്ടേജ് സ്രോതസ്സിന്റെ നിർവചനം വഴി അഞ്ചു വോൾട്ട് ആണ് എവിടെയൊക്കെ ഞാൻ പോസിറ്റീവ് ഇങ്ങനെ ആയിരിക്കണം എന്ന് നിർവചിച്ചിട്ടുണ്ടോ അതായത് അത് ഒരു ആമ്പിയർ അവിടെയെല്ലാം കറണ്ട് എനിക്ക് എടുക്കണം ഇതുപോലെതന്നെ ഇവിടെ ഞാൻ രണ്ട് വോൾട്ട് അതുപോലെ എടുക്കുന്നു ഞാൻ കറണ്ട് ആ ദിശയിൽ എടുക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം കറണ്ട് മൈനസ് 4 ആമ്പിയർ ആണ് ഈ കറൻറ് സ്രോതസ്സിനു കറണ്ട് ഞാൻ ആ ദിശയിൽ എടുക്കും അതായത് 5 ആമ്പിയർ ഞാൻ വോൾടേജ് ആ ദിശയിൽ എടുത്തിട്ടുണ്ട് അത് നമുക്കറിയാം 5 വോൾട്ട് വീണ്ടും ഇവിടെ കറണ്ട് അഞ്ച് ആമ്പിയർ ആണ് ഈ വോൾട്ട് കിർച്ചോഫ് വോൾടേജ് ലോയിൽ നിന്ന് ആണ് നമുക്ക് ഇത് ഉണ്ട് പ്ലസ് അത് അതിനാൽ 7 വോൾട്ട് ഈ കറണ്ട് സ്രോതസ്സിനു ഞാൻ കറണ്ട് ഈ ദിശയിൽ എടുക്കട്ടേ അത് 1 ആംപിയർ ആണ് അതിനാൽ ഞാൻ വോൾടേജ് ഈ രീതിയിൽ എടുക്കും അതായത് 3 വോൾട്ട് അവസാനം ഈ വോൾട്ടേജ് സ്രോതസ്സിനു വേണ്ടി ഞാൻ കറണ്ട് ഈ ദിശയിൽ എടുക്കട്ടേ അതായത് ഒരു ആമ്പിയർ ആ ദിശയിലെ വോൾട്ടേജ് 10 വോൾട്ട് ആണ് അപ്പോൾ ഇതിൽനിന്ന് എനിക്ക് എല്ലാ ഘടകങ്ങളും വലിച്ചെടുക്കുന്ന പവർ കണ്ടുപിടിക്കാം ഇതിന് അത് 5 വോൾട്ട് തവണ ഒരു ആമ്പിയർ അതായത് അഞ്ച് വാട്ട്സ് കൂടാതെ ഇതിന് അത് 5 ആമ്പിയർ തവണ 5 വോൾട്ട് അതായത് മൈനസ് 25 വാട്ട്സ് ഇതിന് രണ്ട് വോൾട്ട് തവണ 4 ആമ്പിയർ അതായത് 8 വാട്ട്സ് ഇതിന് ഒരു ആമ്പിയർ തവണ മൂന്ന് വോൾട്ട് അതായത് മൂന്ന് വാട്ട്സ് ഇതിന് അഞ്ച് ആമ്പിയർ തവണ ഏഴ് വോൾട്ട് അതായത് 35 വാട്ട്സ് അവസാനം ഇതിനു നമുക്ക് ഒരു ആമ്പിയർ തവണ മൈനസ് 10 വോൾട്ട് അതായത് 10 വാട്ട്സ് ഇനി എല്ലാ ഘടകങ്ങളും വലിച്ചെടുക്കുന്ന പവർ കൂട്ടുക തീർച്ചയായും നിങ്ങൾക്ക് 0 കിട്ടും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം പുറത്തേക്ക് കൊടുക്കുന്ന പവർ എന്താണ് എന്നാണ് നിങ്ങൾക്ക് അറിയാം 5 വോൾട്ട് ശ്രോതസ്സ് വലിച്ചെടുക്കുന്ന പവർ 5 വാട്ട്സ് ആണെന്ന് അതിനാൽ അത് പുറത്തേക്ക് കൊടുക്കുന്ന പവർ 5 വാട്ട്സ് പക്ഷേ തീർച്ചയായും നിങ്ങൾക്ക് ഏതൊരു ഘടകവും വലിച്ചെടുക്കുന്ന പവർ അല്ലെങ്കിൽ കൊടുക്കുന്ന പവർ കണ്ടുപിടിക്കാൻ സാധിക്കും ഇവിടെ വീണ്ടും ചോദ്യം എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് കൊടുക്കുന്ന പവർ ഇവിടെ നിങ്ങൾക്ക് കൺട്രോൾഡ് സ്രോതസ്സുകൾ ഉണ്ട് പക്ഷേ സിദ്ധാന്തം എപ്പോഴും ഒന്നു തന്നെയാണ് ലളിതമായി ഘടകങ്ങൾക്ക് കുറുകെയുള്ള വോൾട്ടേജും ഘടകങ്ങളിലൂടെ ഉള്ള കറണ്ടും കണ്ടുപിടിക്കുക അതായത് Vx ഇത് 2 വോൾട്ട് ആണ് അതിനാൽ ആ ദിശയിൽ ഒഴുകുന്ന കറണ്ട് 5 മില്ലിസിമെൻസ് തവണ Vx അതായതു 10 മില്ലിയാമ്പ്സ് അതിനാൽ വോൾടേജ് സ്രോതസ്സിനെ ഈ പൊളാരിറ്റിയിൽ എടുക്കട്ടെ അതു രണ്ടു വോൾട്ട് ആണ് ആ പൊളാരിറ്റിയിൽ ഉള്ള കറണ്ട് വീണ്ടും ഞാൻ ഇത് പല തവണ പറഞ്ഞിട്ടുണ്ട് പാസ്സിവും കൺവെൻഷനും വെച്ച് ചേർച്ചയുള്ളത് ആയിരിക്കണം അതായത് 10 മില്ലിയാമ്പ്സ് അപ്പോൾ വോൾടേജ് സ്രോതസ്സ് വലിച്ചെടുത്ത പവർ 2 വോൾട്ട് തവണ 10 മില്ലിയാമ്പ്സ് ആണ് അത് 20 മില്ലി വോൾട്ടിനു തുല്യമാണ് ഈ ഘടകത്തിൽ എന്നാൽ അത് പുറത്തേക്ക് കൊടുത്ത പവർ ശെരിക്കും ഇതിൻറെ നെഗറ്റീവ് അതായത് 20 അതിനാൽ ഈ കേസിൽ രണ്ട് വോൾട്ടേജ് സ്രോതസ്സ് ശരിക്കും പവർ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കൺട്രോൾഡ് കറൻറ് സ്രോതസ്സ് പവർ പുറത്തേക്ക് കൊടുക്കുന്നു ഈ സർക്യൂട്ടിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് കറണ്ട് സ്രോതസ്സ് പുറത്തേക്ക് കൊടുക്കുന്ന ഊർജ്ജം കണ്ടുപിടിക്കാനാണ് t0 തൊട്ട് t4 വരെ തീർച്ചയായും നിങ്ങൾക്ക് പോയി ശരിക്കുള്ള Vx ഇതിൽനിന്ന് ഉണ്ടാകുന്നതു കണ്ടുപിടിക്കാം അങ്ങനെ കറണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തു ഈ ചോദ്യത്തിൽ ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം Vx ഇതാണ് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സ്രോതസ്സ് ഈ Vx ആണ് കപ്പാസിറ്ററിനു കുറുകെ നിർവചിച്ചിരിക്കുന്നത് അപ്പോൾ കറണ്ട് സ്രോതസ്സിന് കുറുകെയുള്ള വോൾടേജ് Vx ന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കണ്ടു പിടിച്ചാൽ Vx ഈ വഴിയും മൈനസ് Vx അതിനാൽ കറണ്ട് സ്രോതസ്സിന് കുറുകെ എപ്പോഴും 0 വോൾട്ട് ആയിരിക്കും അതിനാൽ നമുക്ക് വേറെ ഒന്നിന്റെയും വിശദീകരണം ആവശ്യമില്ല സ്രോതസ്സ് വലിച്ചെടുക്കുന്ന ഊർജ്ജം എപ്പോഴും പൂജ്യം ആയിരിക്കും ഊർജ്ജം പുറത്തേക്ക് വിടുന്നതും പൂജ്യം അപ്പോൾ ഈ കേസ്സിൽ കൺട്രോൾഡ് സ്രോതസ്സ് ആണ് ഊർജ്ജം പുറത്തേക്ക് വിടുന്നത് നമുക്ക് കറണ്ട് സ്രോതസിന് കുറുകെ പൂജ്യം വോൾട്ട് ഉള്ളതിനാൽ പുറത്തേക്ക് കൊടുക്കുന്ന കറണ്ടും പൂജ്യം ആയിരിക്കും ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യം ആണ് നിങ്ങളോട് പാസ്സീവ് ഘടകം തിരിച്ചറിയാനാണ് ചോദിച്ചിരിക്കുന്നത് ഇത് തികച്ചും നേരെയുള്ള ചോദ്യമാണ് I യും Vr ഉം തിരഞ്ഞെടുത്തിരിക്കുന്നത് പാസ്സിവും കൺവെൻഷനും മാറ്റമില്ലാതെ ആണ് നമ്മൾ ഘടകങ്ങളുടെ IV കാരക്ടറിസ്റ്റിക്സ് വരക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കാരക്ടറിസ്റ്റിക്സ് രണ്ടാമത്തെയോ നാലാമത്തെയോ വൃത്തപാദത്തിൽ ആണെങ്കിൽ അത് പാസ്സീവ് ആകണമെന്ന് ഇല്ല നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിന്റെ ഒരു ഭാഗവും നാലാമത്തെ വൃത്തപാദത്തിൽ ഇല്ല ഇതിനു ഉണ്ട് ഇതിനു രണ്ടാമത്തെയും നാലാമത്തെയും വൃത്തപാദത്തിൽ ഉണ്ട് അതിനാൽ b യും d യും പാസ്സീവ് അല്ല a യും c യും പാസ്സീവ് ആണ് ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇനി ഇത് സർക്യൂട്ട് വളരെ സങ്കീർണമാണ് എന്ന് തോന്നും അടിസ്ഥാനപരമായി ഇതൊരു അഭ്യാസം ആണ് രണ്ടും സൂപ്പർ പൊസിഷൻ ഉപയോഗിച്ച് പരിഹരിക്കുന്നു എന്നിട്ട് തീർച്ചയായും ചില സ്രോതസ്സുകൾ പുറത്തുവിടുന്ന പവർ കണ്ടുപിടിക്കുന്നു നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് 2 വോൾട്ട് സ്രോതസ്സ് പുറത്തേക്ക് വിടുന്ന പവർ ആണ് അതായത് ഇവിടെ ഇതിന്റെ അർത്ഥം കറണ്ട് കണ്ടുപിടിക്കുക എന്നാണ് അപ്പോൾ ഈ വോൾട്ടേജ്ജിന്റെ പൊളാരിറ്റി 2 വോൾട്ട് ആണ് ഇത് ഒരിക്കൽ കണ്ടു പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം വോൾട്ടേജ് സ്രോതസ്സ് വലിച്ചെടുക്കുന്ന പവർ അതായത് അത് 2 വോൾട്ട് തവണ I ആണ് നിങ്ങൾക്ക് വേറെ എല്ലാം കണ്ടുപിടിക്കാം ഇപ്പോൾ നമുക്ക് പല സ്വതന്ത്ര സോതസ്സുകൾ ഉണ്ട് ഇത് എല്ലാം സൂപ്പർ പൊസിഷൻ വഴി നിങ്ങൾ പരിഹരിക്കും അതിനാൽ ഞാൻ ഓരോ പടിയുടെയും വിശദീകരണം കാണിക്കില്ല പക്ഷേ ഞാൻ 4 സാഹചര്യങ്ങൾ കാണിക്കാം സൂപ്പർ പൊസിഷൻ ചെയ്യേണ്ടവ 4 സ്വതന്ത്ര സ്രോതസ്സുകൾ സൂപ്പർ പൊസിഷൻ ചെയ്യുവാൻ ഉണ്ട് നിങ്ങൾക്ക് അതിൽ ഒരു സ്രോതസ്സ് മാത്രമേ പൂജ്യം അല്ലാതെ ഉള്ളൂ ഒരു സമയത്ത് എല്ലാ സ്രോതസ്സുകളും പൂജ്യം ആക്കുക ഉത്തരങ്ങൾ എല്ലാം കൂട്ടുക വോൾടേജ്ജും കറണ്ടും അതിൽ നിന്ന് ഉണ്ടാകുന്നതു പവർ വോൾടേജ്ജും കറണ്ടും സൂപ്പർപോസിഷൻ ചെയ്യുവാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് അത് ചെയ്യാം ആദ്യം ഞാൻ 2 വോൾട്ട് സ്രോതസ്സ് എടുക്കട്ടെ എന്നിട്ട് ഈ വോൾട്ടേജിനെ 0 ആക്കിയാൽ കറൻറ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ട് ആകും ഇത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ് ഇത് ഒരു ഷോട്ട് സർക്യൂട്ടും അപ്പോൾ അവസാനം കിട്ടുന്ന സർക്യൂട്ട് ഇതാണ് ഇതെല്ലാം രണ്ട് കിലോ ഓം ഇതെല്ലാം ഒരു കിലോ ഓം ഇനി നിങ്ങൾക്ക് ഇത് പരിഹരിക്കാം നമ്മൾ ഈ വഴിയിൽ ഒഴുകുന്ന കറണ്ട് ഒരു മില്ലി ആമ്പിയർ എന്ന് ഈ കേസിൽ കണ്ടുപിടിക്കും ഇനി നിങ്ങൾ അടുത്ത വോൾട്ടേജ് സ്രോതസ്സ് എടുക്കുക ഇത് ഈ ദിശയിൽ ഒരു വോൾട്ട് ആണ് കൂടാതെ ഇതിൽ നിന്നു വരുന്ന കറണ്ട് ഈ ദിശയിൽ മൈനസ് 1 ബൈ 4 മില്ലി ആംപിയർ ആണ് ഞാൻ മൂന്നാമത്തെ കേസ് എടുക്കട്ടെ അതായത് കറണ്ട് സ്രോതസ്സ് മാത്രം ഉള്ളത് കറന്റ് സ്രോതസ്സ് ഇവിടെ 4 മില്ലി ആംപിയർ ഈ കേസ്സിൽ ഇവിടെ ഒഴുകുന്ന കറണ്ട് ഒരു മില്ലി ആമ്പിയർ ആണ് ആകുക വീണ്ടും ഇത് നിങ്ങൾക്ക് പരിഹരിച്ച് കണ്ടുപിടിക്കാം 8 വോൾട്ട് ആണ് അവസാനത്തെ വോൾട്ടേജ് സ്രോതസ്സിൽ കിട്ടുക ഇവിടെ ഈ കറണ്ട് I നിങ്ങൾ കണ്ടു പിടിച്ചാൽ അത് ഹാഫ് മില്ലി ആമ്പിയർ ആകും ഇതിൻറെ എല്ലാം മൊത്തമായ സംഖ്യ 1 മൈനസ് വൺ ഫോര്ത് പ്ലസ് 1 പ്ലസ് ഹാഫ് ആണ് അപ്പോൾ ഇത് 2 25 മില്ലി ആംപിയർ ആകും അപ്പോൾ മൈനസ് 2 വോൾട്ട് സ്രോതസ്സ് വലിച്ചെടുക്കുന്ന പവർ 2 വോൾട്ട് തവണ 2 25 മില്ലി ആംപിയർ ആണ് അതായത് 4 5 മില്ലി വാട്ട്സ് അപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊടുക്കുന്ന പവർ നെഗറ്റീവ് ആണ് അതായത് പ്ലസ് 4 5 മില്ലി വാട്ട്സ് അപ്പോൾ അത്രയും മാത്രമാണ് ചെയ്യാനുള്ളത് ഈ ചോദ്യം വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് സ്വതന്ത്ര KCL സമവാക്യങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നോഡുകളുടെ എണ്ണം കണ്ടുപിടിക്കണം നോഡ് എന്ന് വെച്ചാൽ രണ്ടോ അതിൽ കൂടുതലോ കംപോണന്റുകൾ ഘടിപ്പിച്ചിരിക്കുന്ന പോയിൻറ് ആണ് അതിനാൽ ഇതൊരു നോഡ് ആണ് അതൊരു നോഡ് ആണ് അതൊരു നോഡ് ആണ് ഇതൊരു നോഡ് ആണ് അതൊരു നോഡ്ആണ് അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ഘടകങ്ങൾ ബന്ധിപ്പിച്ചിട്ടുള്ള ഘടന നമ്മൾ തിരിച്ചറിഞ്ഞു അപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 ഉണ്ട് നമുക്ക് അറിയാം സ്വതന്ത്ര KCL സമവാക്യങ്ങളുടെ എണ്ണം നമുക്ക് എഴുതാവുന്നതു നോഡുകളുടെ എണ്ണം മൈനസ് 1 അതായത് 7 മൈനസ് 1 6 ആണ് അതേ സർക്യൂട്ട് തന്നെ ഇത്തവണ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് കിർച്ചോഫ് വോൾട്ടേജ് ലോ സമവാക്യങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുവാൻ ആണ് അതിനാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ വീണ്ടും നോഡുകൾ തിരിച്ചറിയട്ടെ ഞാൻ മുൻപേ ചെയ്തതുപോലെ അതിനാൽ നോഡുകളുടെ എണ്ണം N 7 ആണ് എനിക്ക് ശാഖകൾ തിരിച്ചറിയണം ശാഖകളാണ് എല്ലാ ഘടകങ്ങളുടെയും അടിസ്ഥാനം ഇതിൽ എനിക്ക് എണ്ണം എടുക്കണം അപ്പോൾ എനിക്ക് 1 2 3 4 5 6 7 8 9 10 11 എണ്ണം ഉണ്ട് ഇപ്പോൾ ശാഖകളുടെ എണ്ണം 11 ആണ് നമുക്കറിയാം സ്വതന്ത്ര ലൂപ്പുകളുടെ എണ്ണം രൂപപ്പെടുന്നത് B മൈനസ് N പ്ലസ് 1 എന്നാണ് ഇത് അഞ്ച് ആകാം അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ശരിയായി ചെയ്യുവാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു പതിവുപോലെ നിങ്ങളൊരു തെറ്റ് ഉണ്ടാക്കി എങ്കിൽ തിരിച്ചു പോയി തന്നെത്താൻ തന്നെ ആ ചോദ്യം പരിഹരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇതേ ഉത്തരം തന്നെ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക ഇനി വേറൊരു കാര്യം എന്താണ് ചെയ്യാവുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു തെറ്റ് ഉണ്ടാക്കിയെങ്കിൽ തിരിച്ചുപോയി എവിടെയാണ് നിങ്ങൾ തെറ്റ് വരുത്തിയതെന്നു കണ്ടുപിടിച്ചിട്ട് അത് ശരിയായി മനസ്സിലാക്കുക എങ്കിൽ നിങ്ങൾ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് ഉറപ്പു വരുത്താം